പേറ്റന്റബിലിറ്റി തിരച്ചിൽ റിപ്പോർട്ട് പേറ്റന്റബിലിറ്റി തിരച്ചിൽ നടത്തിക്കഴിഞ്ഞാൽ തിരച്ചിൽ വിദഗ്ധൻ ഒരു റിപ്പോർട്ട് സൃഷ്ടിക്കും പേറ്റന്റബിലിറ്റി തിരച്ചിൽ റിപ്പോർട്ട് പേറ്റന്റബിലിറ്റി തിരച്ചിൽ നടത്തിക്കഴിഞ്ഞാൽ തിരച്ചിൽ വിദഗ്ധൻ ഒരു റിപ്പോർട്ട് സൃഷ്ടിക്കും ഈ റിപ്പോർട്ട് സാധാരണയായി താഴെ പറയുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നു ഏതു വിഷയത്തിലാണ് തിരച്ചിൽ നടത്തിയത് എന്ന് അത് ആദ്യം വിശദീകരിക്കും ഈ റിപ്പോർട്ട് സാധാരണയായി താഴെ പറയുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നു ഏതു വിഷയത്തിലാണ് തിരച്ചിൽ നടത്തിയത് എന്ന് അത് ആദ്യം വിശദീകരിക്കും തിരച്ചിലിനിടെ കണ്ടെത്തിയ പരാമർശങ്ങളെ കുറിച്ചും തിരച്ചിൽ വിദഗ്ദ്ധൻ വിശദീകരിക്കും തിരച്ചിലിനിടെ കണ്ടെത്തിയ പരാമർശങ്ങളെ കുറിച്ചും തിരച്ചിൽ വിദഗ്ദ്ധൻ വിശദീകരിക്കും അതിനുശേഷം കൂടുതൽ പ്രസക്തമായ റഫറൻസുകളെക്കുറിച്ച് ഒരു ചർച്ച നടത്തും അതിനുശേഷം കൂടുതൽ പ്രസക്തമായ റഫറൻസുകളെക്കുറിച്ച് ഒരു ചർച്ച നടത്തും പേറ്റന്റബിലിറ്റി മാനദണ്ഡം എന്താണ് കണ്ടെത്തൽ ഘട്ടം ഏതാണ് അതിനെ വ്യാവസായിക മേഖലയിൽ എങ്ങെനെ പ്രയോഗിക്കാം മുതലായവയെ കുറിച്ചുള്ള ഒരു ഹ്രസ്വ ചർച്ചയും ഇതിൽ അടങ്ങിയിരിക്കും പേറ്റന്റബിലിറ്റി മാനദണ്ഡം എന്താണ് കണ്ടെത്തൽ ഘട്ടം ഏതാണ് അതിനെ വ്യാവസായിക മേഖലയിൽ എങ്ങെനെ പ്രയോഗിക്കാം മുതലായവയെ കുറിച്ചുള്ള ഒരു ഹ്രസ്വ ചർച്ചയും ഇതിൽ അടങ്ങിയിരിക്കും നിഗമനം അനുകൂലമാണോ എന്നത് റിപ്പോർട്ടിൽ ഉണ്ടാകും നിഗമനം അനുകൂലമാണോ എന്നത് റിപ്പോർട്ടിൽ ഉണ്ടാകും അനുകൂലമായത് എന്ന് പറഞ്ഞാൽ കണ്ടെത്തൽ പേറ്റന്റ് ചെയ്യാൻ കഴിയും എന്നർത്ഥം അനുകൂലമായത് എന്ന് പറഞ്ഞാൽ കണ്ടെത്തൽ പേറ്റന്റ് ചെയ്യാൻ കഴിയും എന്നർത്ഥം കണ്ടെത്തലിന് പേറ്റന്റ് നൽകാൻ കഴിയില്ല അല്ലെങ്കിൽ പേറ്റന്റ് ലഭിക്കാനിടയില്ലെന്ന് വ്യക്തമാക്കുന്ന നിഗമനമാണെങ്കിൽ ആ നിഗമനം അനുകൂലമല്ലാത്തതാണ് എന്നർത്ഥം കണ്ടെത്തലിന് പേറ്റന്റ് നൽകാൻ കഴിയില്ല അല്ലെങ്കിൽ പേറ്റന്റ് ലഭിക്കാനിടയില്ലെന്ന് വ്യക്തമാക്കുന്ന നിഗമനമാണെങ്കിൽ ആ നിഗമനം അനുകൂലമല്ലാത്തതാണ് എന്നർത്ഥം നിഷ്പക്ഷമായ നിഗമനം ആണെങ്കിൽ പേറ്റന്റ് ലഭിക്കാൻ ന്യായമായ അവസരമുണ്ടെന്നും എന്നാൽ അവയ്ക്ക് ചില എതിർപ്പുകൾ ഉണ്ടാകാം എന്നും ആയതിനാൽ റിപ്പോർട്ടിന് ചില പരിമിതികൾ ഉണ്ടെന്നും പറഞ്ഞായിരിക്കും ആ റിപ്പോർട്ട് അവസാനിപ്പിക്കുക നിഷ്പക്ഷമായ നിഗമനം ആണെങ്കിൽ പേറ്റന്റ് ലഭിക്കാൻ ന്യായമായ അവസരമുണ്ടെന്നും എന്നാൽ അവയ്ക്ക് ചില എതിർപ്പുകൾ ഉണ്ടാകാം എന്നും ആയതിനാൽ റിപ്പോർട്ടിന് ചില പരിമിതികൾ ഉണ്ടെന്നും പറഞ്ഞായിരിക്കും ആ റിപ്പോർട്ട് അവസാനിപ്പിക്കുക നിഗമനം അനുകൂലമല്ലാത്തതാണെങ്കിൽ അതായത് ആ കണ്ടെത്തൽ പേറ്റന്റ് ചെയ്യാൻ സാധിക്കാത്തത് ആണെങ്കിൽ ചില പ്രൊഫഷണലുകൾ പേറ്റന്റബിലിറ്റി തിരച്ചിൽ റിപ്പോർട്ട് ക്ലയന്റിനെ അറിയിക്കാറില്ല നിഗമനം അനുകൂലമല്ലാത്തതാണെങ്കിൽ അതായത് ആ കണ്ടെത്തൽ പേറ്റന്റ് ചെയ്യാൻ സാധിക്കാത്തത് ആണെങ്കിൽ ചില പ്രൊഫഷണലുകൾ പേറ്റന്റബിലിറ്റി തിരച്ചിൽ റിപ്പോർട്ട് ക്ലയന്റിനെ അറിയിക്കാറില്ല തിരച്ചിൽ നടത്തുമ്പോൾ വിദഗ്ധർക്കും തെറ്റ് സംഭവിക്കാം തിരച്ചിൽ നടത്തുമ്പോൾ വിദഗ്ധർക്കും തെറ്റ് സംഭവിക്കാം തങ്ങൾക്ക് തെറ്റ് സംഭിവിച്ചതാണെങ്കിലോ എന്ന് കരുതി ചിലർ കണ്ടെത്തൽ പേറ്റന്റ് ചെയ്യാൻ കഴിയുന്നതല്ല എന്ന് രേഖാമൂലം ക്ലയന്റിനെ അറിയിക്കാറില്ല തങ്ങൾക്ക് തെറ്റ് സംഭിവിച്ചതാണെങ്കിലോ എന്ന് കരുതി ചിലർ കണ്ടെത്തൽ പേറ്റന്റ് ചെയ്യാൻ കഴിയുന്നതല്ല എന്ന് രേഖാമൂലം ക്ലയന്റിനെ അറിയിക്കാറില്ല മാത്രവുമല്ല ഇപ്രകാരം ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടാൽ ക്ലയന്റിനെതിരായി ഒരു വ്യവഹാരമുണ്ടായാൽ അത് പ്രയോഗിക്കപ്പെട്ടേക്കാം മാത്രവുമല്ല ഇപ്രകാരം ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടാൽ ക്ലയന്റിനെതിരായി ഒരു വ്യവഹാരമുണ്ടായാൽ അത് പ്രയോഗിക്കപ്പെട്ടേക്കാം ഈ ക്ലയന്റിന് കണ്ടെത്തലിന് പേറ്റന്റ് ലഭിക്കാൻ സാധ്യതയില്ലന്നറിഞ്ഞിട്ടും മുന്നോട്ട് പോയി എന്നും ആരോപിച്ചേക്കാം ബദൽ മാർഗ്ഗങ്ങളിലൂടെ പേറ്റന്റ് സ്വന്തമാക്കി എന്നും ആരോപിച്ചേക്കാം ഈ ക്ലയന്റിന് കണ്ടെത്തലിന് പേറ്റന്റ് ലഭിക്കാൻ സാധ്യതയില്ലന്നറിഞ്ഞിട്ടും മുന്നോട്ട് പോയി എന്നും ആരോപിച്ചേക്കാം ബദൽ മാർഗ്ഗങ്ങളിലൂടെ പേറ്റന്റ് സ്വന്തമാക്കി എന്നും ആരോപിച്ചേക്കാം തികഞ്ഞ പേറ്റന്റബിലിറ്റി തിരച്ചിൽ |Perfect Patentibility Search എന്നൊന്നില്ലെന്ന് ഞങ്ങൾ ഇതിനകം സൂചിപ്പിച്ചിരുന്നു തികഞ്ഞ പേറ്റന്റബിലിറ്റി തിരച്ചിൽ |Perfect Patentibility Search എന്നൊന്നില്ലെന്ന് ഞങ്ങൾ ഇതിനകം സൂചിപ്പിച്ചിരുന്നു അതിനാൽ റിപ്പോർട്ട് പ്രതേകിച്ചും ഒരു നെഗറ്റീവ് റിപ്പോർട്ട് സാധാരണയായി രേഖാമൂലം നൽകാറില്ല അതിനാൽ റിപ്പോർട്ട് പ്രതേകിച്ചും ഒരു നെഗറ്റീവ് റിപ്പോർട്ട് സാധാരണയായി രേഖാമൂലം നൽകാറില്ല ഈ കാരണങ്ങളാൽ ചില പ്രൊഫഷണലുകൾ തങ്ങളുടെ നിഗമനം ഫോണിലൂടെ ക്ലയന്റിനെ അറിയിക്കുന്നു ഈ കാരണങ്ങളാൽ ചില പ്രൊഫഷണലുകൾ തങ്ങളുടെ നിഗമനം ഫോണിലൂടെ ക്ലയന്റിനെ അറിയിക്കുന്നു